ഇലക്ട്രോ സ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഇലക്ട്രിക് ഫീല്ഡിനെക്കുറിച്ചുള്ള മുൻപത്തെ ലെക്ച്ചറിൽനാം കണ്ടത് ഏതെങ്കിലും ഒരു പോയിന്റിലെ ഡൈവർജൻസ് ആ പോയിന്റിലെ ചാർജ് ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും E യുടെ കേൾ എപ്പോഴും 0 ആയിരിക്കും എന്നും ഇലക്ട്രിക് ഫീൽഡ് മേൽപ്പറഞ്ഞ ഇക്വേഷനുകളെ സാധൂകരിക്കുന്നു എന്നുമാണ് നമുക്ക് ഈ ഡിഫറെൻഷ്യൽ ഇക്വേഷനുകൾ ആവശ്യമായി വരുന്നത് എന്തെന്നാൽ ഫ്രീ സ്പേസിൽ ഇലക്ട്രിക് ഫീൽഡുകൾക്ക് മേൽപ്പറഞ്ഞ ഫോർമുലകൾ ഉണ്ടാകാം നാം നേരത്തെ എഴുതിയത് ക്യൂ ഭാഗം 4 പൈ എപ്സിലോൺ 0 1 ഭാഗം r ക്യൂബ്ഡ് r അല്ലെങ്കിൽ ഒരു ചാർജ് ഡിസ്ട്രിബ്യുഷൻ E ആറിന് 1 ഭാഗം 4 പൈ എപ്സിലോൺ 0 ഇന്റഗ്രേഷൻ r ഭാഗം r മൈനസ് r പ്രൈം ക്യൂബ്ഡ് r മൈനസ് r പ്രൈം dV പ്രൈം എന്നാണ് പക്ഷെ ഇത് ഫ്രീ സ്പേസിൽ മാത്രമാണ് സാഹചര്യം ഇതായിരിക്കണമെന്നില്ല ഉദാഹരണത്തിന് ഞാൻ ഒരു ഗ്രൌൻഡഡ് സ്ഫിയറിന് ഉള്ളിലുള്ള ഒരു ചാർജ് എടുത്താൽ ഈ ചാർജ് മെറ്റാലിക് ഗ്രൌൻഡഡ് സ്ഫിയറിനാൽ ആവരണം ചെയ്തിരിക്കുന്നത് കാരണം മുൻപിലത്തെ ഫോർമുലയിൽ തന്ന മാതിരി ഒരു ഫീൽഡ് നല്കണമെന്നില്ല അതിനാൽ നാം ചെയ്യേണ്ടത് ബൌണ്ടറി കണ്ടിഷനുകളുടെ അടിസ്ഥാനത്തിൽ ഈ ഡിഫറെൻഷ്യൽ ഇക്വേഷനുകൾ സോൾവ് ചെയ്യുകയാണ് ഉചിതമായ ബൌണ്ടറി കണ്ടിഷനുകൾ നമുക്കിതിനെപ്പറ്റി കൂടുതൽ പിന്നീട് സംസാരിക്കാം ഇപ്പോഴത്തേക്ക് നമുക്ക് കേൾ ഇക്വേഷന്റെ അർത്ഥം മനസിലാക്കാം എന്താണ് ഇതിന്റെ അർത്ഥം ഇത് മനസ്സിലാക്കാനുള്ള ശ്രമം നമ്മെ താനെ എലെക്ട്രോസ്റ്റാറ്റിക് പൊട്ടെൻഷ്യലിന്റെ നിർവചനത്തിലേക്ക് നയിക്കും ഇത് ഇലക്ട്രിക്ക് ഫീല്ഡിനെ അപേക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ് എന്തെന്നാൽ ഇലക്ട്രിക്ക് ഫീൽഡിന് രണ്ട് ഡിഫറെൻഷ്യൽ ഇക്വേഷനുകൾ ഉണ്ട് അതിന്റെ കേളിനും ഡൈവേർജൻസിനും അതെ സമയം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടെൻഷ്യലിന് ഒരു ഇക്വേഷൻ മാത്രമേയുള്ളു എന്തെന്നാൽ ഇത് ഒരു സ്കാലർ അളവ് ആയിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം ഒരു ക്വാണ്ടിറ്റിയുടെ കേൾ 0 ആയിരിക്കുമ്പോൾ സ്റ്റോക്സ് തിയറം അനുസരിച്ച് നമുക്ക് ഒരു ക്ലോസ്ഡ് പാത്തിൽ E യുടെ ലൈൻ ഇന്റഗ്രൽഅതായത് E യുടെ കേൾ ന്റെ ഏരിയ ഇന്റഗ്രൽ നാം നേരത്തെ ചെയ്തത് പോലെ 0 ആയിരിക്കും അതിനാൽ ഞാൻ രണ്ടു പോയിന്റുകൾ 1 ഉം 2 ഉം എടുക്കുന്നു ഞാൻ ഇതിൽ കൂടി ഒരു പാഥ് എടുക്കുന്നു നമുക്കിതിനെ പാഥ് 1 എന്ന് വിളിക്കാം രണ്ടാമതൊരു പാഥ് എടുക്കുന്നു അതിനെ പാഥ് 2 എന്നും വിളിക്കാം അതിനു ശേഷം പാഥ് 1 ൽ കൂടി ഇന്റഗ്രൽ 1 മുതൽ 2 വരെ എടുക്കാം E ഡോട്ട് dl എന്നത് പാഥ് 2 ൽ കൂടിയുള്ള ഇന്റഗ്രൽ തന്നെയാണ് കേൾ E 0 ആണെങ്കിൽ ഇത് എന്ത് കൊണ്ടെന്നാൽ പാഥ് 1 ൽ കൂടി 1 മുതൽ 2 വരെ E ഡിറ്റ് dl മൈനസ് പാഥ് 2 ൽ കൂടി E ഡോട്ട് dl ആണ് ഇപ്പോൾ ഞാൻ ചിഹ്നം മാറ്റുവാൻ പോകുന്നു ഞാനിത് പ്ലസ് ആക്കുകയും 2 ൽ നിന്ന് 1 ലേക്ക് മാറ്റുകയും ചെയ്യാം എന്തെന്നാൽ ഒന്നിൽ നിന്നും രണ്ടിലേക്കു പോകുന്നത് രണ്ടിൽ നിന്നും ഒന്നിലേക്ക് പോകുന്നതിന്റെ മൈനസ് ആണ് അതിനാൽ ഇത് ഒന്നിൽ നിന്നും രണ്ടു വരെ പ്ലസ് രണ്ടിൽ നിന്നും ഒന്ന് വരെ ആകും അപ്പോളിത്മുഴുവൻ പാഥ് ളോടെയുമുള്ള ഇന്റഗ്രൽ E ഡോട്ട് dl ആകും അത് 0 ആണ് അതിനാൽ ഈ കണ്ടിഷൻ ഇതിനെയും തിരിച്ചും സൂചിപ്പിക്കുന്നു അപ്പോൾ നാം കണ്ട 0 യുടെ കേളിന്റെ അർഥം ഞാൻ രണ്ടു പോയിന്റുകളുടെ ഒന്നിന്റെയും രണ്ടിന്റെയും ഇടക്ക് നീങ്ങുകയാണെങ്കിൽ ഇന്റഗ്രൽ പാത്തിനെ അപേക്ഷിച്ച് സ്വതന്ത്രമാണ് അതിനാൽ എനിക്ക് ഒന്നിന്റെയും രണ്ടിന്റെയും ഇടയ്ക്കുള്ള E ഡോട്ട് dl പാത്തിനെ അപേക്ഷിച്ച് സ്വതന്ത്രമാണെന്ന് എഴുതാം ഞാനിത് ഒരു പ്രത്യേക രീതിയിൽ എഴുതുവാൻ പോകുകയാണ് കേൾ 0 ആണെങ്കിൽ ഞാനിത് മൈനസ് V 2 പ്ലസ് V 1 എന്നെഴുതാം ഈ V കൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുമനസ്സിലാക്കം കൂടാതെ ഇതൊരു മെച്ചപ്പെട്ട രീതിയിൽ എഴുതുകയും ചെയ്യാം r 2 ലെ V പ്ലസ് r 1 ലെ വി അപ്പോൾ ഞാൻ ഈ പോയിന്റുകൾ ഒന്നും രണ്ടും എടുത്ത് അവയ്ക്കിടയിൽ ഏത് പാത്തിൽ സഞ്ചരിച്ചാലും E ഡോട്ട് dl എല്ലായെപ്പോഴും തുല്യമായിരിക്കും അതിനാൽ ഈ പോയിന്റുകളിൽ അളവുകളുടെ വ്യത്യാസം മാത്രം എടുത്ത് എഴുതിയാൽ മതിയാകും നമുക്കിത് അൽപ്പം വ്യത്യാസപ്പെടുത്തി എഴുതാം അപ്പോൾ ഞാൻ എഴുതുന്നത് r 2 ലെ V മൈനസ് r 1 ലെ V സമം ഇന്റഗ്രൽ മൈനസ് E ഡോട്ട് dl ഒന്ന് മുതൽ രണ്ടു വരെ എന്താണ് മൈനസ് ഈ ഇത് ഒരാൾക്ക് യൂണിറ്റ് ചാർജ് ക്യൂ ഇക്വിലിബ്രിയത്തിൽ നിലനിർത്തിക്കൊണ്ട് നീക്കുന്നതിന് വേണ്ടി ചാർജിൽ പ്രയോഗിക്കേണ്ട ഫോഴ്സ് ആണ് dl എന്നത് സഞ്ചരിച്ച ദൂരമാണ് അപ്പോൾ ഇത് dl ആണ് ഇത് dl ആണ് ഇത് dl ആണ് ഇന്റെഗ്രേലിന്റെ അർത്ഥം ഞാൻ ഈ dl കൾ എല്ലാം കൂട്ടുന്നു എന്നാണ് ഇത് ഒരാൾ പ്രയോഗിക്കുന്ന ഫോഴ്സ് അയാൾ ഇത് നീക്കുകയും ചെയ്യുന്നു അതിനാൽ ഇത് ചെയ്ത വർക്കിനെ സൂചിപ്പിക്കുന്നു ഞാൻ ഇത് സൂചിപ്പിക്കുന്ന വ്യത്യാസം എഴുതട്ടെ ഈ ചാർജ് യൂണിറ്റ് ചാർജ് നീക്കാൻ വേണ്ടി ചെയ്ത വർക്ക് അതായത് V ഞാൻ ഇതിനെ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നു അപ്പോൾ പോയിന്റുകൾ രണ്ടിന്റെയും ഒന്നിന്റെയും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറെൻസ് പുറത്തുനിന്ന് ഒരാൾ ഇക്വിലിബ്രിയം പാലിച്ച് കൊണ്ട് ഈ ചാർജ് നീക്കാൻ വേണ്ടി ചെയ്ത വർക്കാണ് ഒന്നിൽ നിന്നും രണ്ടിലേക്ക് നീക്കാൻ നമുക്കിത് പുനരവലോകനം ചെയ്യാം അപ്പോൾ ഞാൻ പോയിന്റുകളിലേക്ക് പോകുന്നു ഒരാൾ ഒരു ചാർജ് പോയിന്റ് ഒന്നിൽ നിന്നും രണ്ടിലേക്ക് നീക്കുന്നു ഇത് മൈനസ് E ഡോട്ട് dl ഒന്നിൽ നിന്നും രണ്ടിലേക്കാണ് അതിനാൽ പോയിന്റ് ഒന്നിനും രണ്ടിനും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറെൻസ് ഞാനിതിനെ രണ്ടിലെ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നു ഇത് ഒന്നിലെ പൊട്ടൻഷ്യൽ ആണ് അപ്പോൾ രണ്ടു പോയിന്റുകൾ തമ്മിലുള്ള എലെക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറെൻസ് എന്നത് ഒരാൾക്ക് ഒരു യൂണിറ്റ് ചാർജ് ഒന്നിൽ നിന്നും രണ്ടിലേക്ക് നീക്കാൻ വേണ്ടി വരുന്ന വർക്കാണ് കൂടാതെ ഇത് പാത്തിനെ അപേക്ഷിച്ച് സ്വതന്ത്രമാണ് അതിനാലാണ് എനിക്ക് പൊട്ടെൻഷ്യലിനെ നിർവചിക്കാൻ കഴിയുന്നത് അപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലാകുന്നത് എന്തെന്നാൽ എലെക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്നത് പുറത്തുള്ള ഒരേജൻസി അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്ന വർക്കിന് തുല്യമാണ് ഇലക്ട്രിക്ക് ഫീൽഡ് ചെയ്യുന്നതല്ല നമുക്കിത് ഒരു ഏജൻസി ഒരു യൂണിറ്റ് ചാർജ് ഒരു ഇലക്ട്രിക്ക് ഫീൽഡിലെ പോയിന്റ് ഒന്നിൽ നിന്നും രണ്ടിലേക്ക് നീക്കും പോലെ എഴുതാം ശ്രദ്ധിക്കുക ഞാൻ ഇവ രണ്ടിലും ഒരു കോൺസ്റ്റന്റ് കൂടിയാലും ഈ വ്യത്യാസം തുല്യമായി നിലനിൽക്കും അതിനാൽ പൊട്ടൻഷ്യൽ ഒരു കോൺസ്റ്റന്റ് വരെ മാത്രമേ നിർവചിക്കാനാകൂ എന്തെന്നാൽ ചെയ്ത വർക്ക് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറെൻസ് എന്നത് ഒരു ഭൌതിക അളവ് മാത്രമാണ് അപ്പോൾ പൊട്ടെൻഷ്യലിനോട് ഒരു കോൺസ്റ്റന്റ് കൂട്ടുന്നത് കൊണ്ട് വ്യത്യാസം വരികയില്ല അതിനാൽ എലെക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറെൻസ് നിർവചിക്കപ്പെടുന്നത് ഒരു കോൺസ്റ്റന്റ് വരെ എന്ന അർത്ഥത്തിലാണ് ഇതിനർത്ഥം എനിക്ക് ഇതിനോട് കൂടി ഒരു കോൺസ്റ്റന്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അതിനാൽ ഒരു വ്യത്യാസവും വരികയില്ല നാം കണ്ടത് എന്തെന്നാൽ നാം പൊട്ടൻഷ്യൽ ഡിഫറെൻസിനെ ഒരു ഇലക്ട്രിക്ക് ഫീൽഡിൽ ചെയ്ത വർക്കുമായി ബന്ധപ്പെടുത്തി ഇതിന്റെ ഇൻവേർഴ്സ് ബന്ധം എങ്ങിനെയാണ് ഞാൻ എങ്ങിനെയാണ് E യെ പൊട്ടെൻഷ്യലിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് നിങ്ങൾക്ക് ഇതിന്റെ അർഥം ഇപ്പോൾത്തന്നെ മനസിലാക്കാം ഡെൽറ്റ V എന്നത് ഇന്റഗ്രൽ ആണ് അതിനാൽ ഇത് ഒരു തരം ഡെറിവേറ്റീവ് ആയിരിക്കണം ഇത് ഗ്രേഡിയന്റ് എന്ന ഐഡിയയെ പരിചയപ്പെടുത്തുന്നു അപ്പോൾ അതിന്നായി നമുക്ക് രണ്ടു പോയിന്റ് എടുക്കാം അടുത്തുള്ള പോയിന്റ് 1 അത് xy z ൽ ആണ് പോയിന്റ് 2 x പ്ലസ് ഡെൽറ്റ x y പ്ലസ് ഡെൽറ്റ y z പ്ലസ് ഡെൽറ്റ z ൽ ആണ് അപ്പോൾ രണ്ടിലെ മൈനസ് V പ്ലസ് ഒന്നിലെ V എന്നത് x പ്ലസ് ഡെൽറ്റ x y പ്ലസ് ഡെൽറ്റ y z പ്ലസ് ഡെൽറ്റ z ലെ മൈനസ് V പ്ലസ് 1 ലെ V ആയിരിക്കും ഇത് പാർഷ്യൽ ഡെറിവേറ്റീവ് ന്റെ നിർവചനം അനുസരിച്ച് മൈനസ് പാർഷ്യൽ V ഭാഗം പാർഷ്യൽ x ഡെൽറ്റ x മൈനസ് പാർഷ്യൽ V ഭാഗം പാർഷ്യൽ y ഡെൽറ്റ y മൈനസ് പാർഷ്യൽ V ഭാഗം പാർഷ്യൽ z ഡെൽറ്റ z ആയിരിക്കും അപ്പോൾ പോയിന്റ്കൾ ഒന്നിനും രണ്ടിനും ഇടയ്ക്ക് xy z x പ്ലസ് ഡെൽറ്റ x y പ്ലസ് ഡെൽറ്റ y z പ്ലസ് ഡെൽറ്റ z അവയ്ക്കിടയിൽ നാം കണ്ടത് രണ്ടിലെ V പ്ലസ് ഒന്നിലെ V എന്നത് മൈനസ് പാർഷ്യൽ V ഭാഗം പാർഷ്യൽ x ഡെൽറ്റ x മൈനസ് പാർഷ്യൽ V ഭാഗം പാർഷ്യൽ y ഡെൽറ്റ y മൈനസ് പാർഷ്യൽ V ഭാഗം പാർഷ്യൽ z ഡെൽറ്റ z ആണ് ഇത് E ക്ക് തുല്യമാണ് നമുക്ക് പറയാം xy z ൽ ഡോട്ട് dl എന്നത് x ദിശയിൽ ഡെൽറ്റ x പ്ലസ് y ദിശയിൽ ഡെൽറ്റ y അധിക z ദിശയിൽ ഡെൽറ്റ z ആണ് ഇത് E x ഡെൽറ്റ x പ്ലസ് E y ഡെൽറ്റ y പ്ലസ് E z ഡെൽറ്റ z ന് തുല്യമാണ് എനിക്ക് ഡെൽറ്റ x ഡെൽറ്റ x ഡെൽറ്റാ z എന്നിവ 0 ആണെന്നോ മറ്റേതെങ്കിലും തരത്തിലോ എടുക്കാം അവ സന്ദർഭമനുസ്സരിച്ചാകയാൽ സൂചിപ്പിക്കുന്നത് E x എന്നത് മൈനസ് പാർഷ്യൽ ഡെറിവേറ്റീവ് V x അടിസ്ഥാനമാക്കി E y എന്നത് മൈനസ് പാർഷ്യൽ ഡെറിവേറ്റീവ് V y അടിസ്ഥാനമാക്കി E z എന്നത് ഇലക്ട്രിക്ക് ഫീൽഡിന്റെ z ഘടകം മൈനസ് പാർഷ്യൽ ഡെറിവേറ്റീവ് V z അടിസ്ഥാനമാക്കി ആകുന്നു കൂടാതെ ഡെൽറ്റാ V E ഡോട്ട് ഡെൽറ്റ l ആണ് അല്ലെങ്കിൽ E ഡോട്ട് ഡെൽറ്റ x x പ്ലസ് ഡെൽറ്റ y y പ്ലസ് ഡെൽറ്റ z z ആണ് ഇത് മൈനസ് പാർഷ്യൽ V ഭാഗം പാർഷ്യൽ x ഡെൽറ്റ x മൈനസ് പാർഷ്യൽ V ഭാഗം പാർഷ്യൽ y ഡെൽറ്റ y മൈനസ് പാർഷ്യൽ V ഭാഗം പാർഷ്യൽ z ഡെൽറ്റ z അല്ലാതൊന്നുമല്ല ഞാൻ ഇവിടെ മൈനസ് ചിഹ്നം എഴുതണം എന്തെന്നാൽ ഇത് മൈനസ് V 2 പ്ലസ് V 1 ആണ് ഞാനിത് സിംബോളിക് ആയി മൈനസ് V ഡോട്ട് ഡെൽറ്റ l ന്റെ ഗ്രേഡിയന്റ് ഡെൽറ്റ l എന്നത് x ദിശയിൽ ഡെൽറ്റ x പ്ലസ് y ദിശയിൽ ഡെൽറ്റ y അധിക z ദിശയിൽ ഡെൽറ്റ z ആണ് കൂടാതെ ഗ്രേഡിയന്റ് ഞാൻ ഇങ്ങനെ എഴുതുന്നു x പാർഷ്യൽ x പ്ലസ് y പാർഷ്യൽ y പ്ലസ് z പാർഷ്യൽ z ഇതെനിക്ക് ഇലക്ട്രിക്ക് ഫീൽഡ് E എന്നത് മൈനസ് ഗ്രേഡിയന്റ് V ആണ് എന്ന് നൽകുന്നു ഇതാണ് നാം നേരത്തെ പഠിച്ച ഇൻവേഴ്സ് ബന്ധം അടുത്ത ലെക്ച്ചറിൽ നാം ഗ്രേഡിയന്റ് ഓപ്പറേറ്ററിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നു കൂടാതെ V യും E യും ജോമെട്രിക്കലായി എങ്ങിനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നും